വിൽസൺ സോമർഫെൽഡ് ക്വാണ്ടം അവസ്ഥ III കൊളംബ് പൊട്ടൻഷ്യലിൽ 3d ലും അനുബന്ധ ക്വാണ്ടം നമ്പറുകളിലും ചലിക്കുന്ന കണിക മുമ്പത്തെ പ്രഭാഷണത്തിൽ Vkr എന്ന പൊട്ടൻഷ്യലിൽ ഒരു പ്ലെയിൻ ചലിക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ പരിഗണിച്ചു അതായത് ¼πε₀ze²r ബോർ മോഡലിൽ ഉള്ളതിന് തുല്യമായ എനർജിയാണ് പുറത്തുവന്നതെന്ന് കണ്ടെത്തി എന്നിരുന്നാലും ഇതിൽ പുതിയത് എന്തെന്നാൽ അതേ എനർജി മൂല്യങ്ങൾക്ക് വ്യത്യസ്ത മൂല്യങ്ങളുള്ള ഓർബിറ്റുകളും നമുക്ക് ലഭിച്ചു ഉദാഹരണത്തിന് ഈ 3 ഓർബിറ്റുകൾക്കും ഒരേ എനർജിമുണ്ടെന്നും ആന്ഗുലർ മോമെന്റും L1 L2 L3 എന്നിവയുണ്ടെന്നും കരുതുക വ്യത്യസ്ത ആന്ഗുലർ മോമെന്റങ്ങൾ വ്യത്യസ്തമായതിനാൽ L1 L2 നേക്കാൾ വലുതാണെന്ന് നമ്മൾ കണ്ടെത്തി ഊർജങ്ങളും ഒന്നുതന്നെയാണ് അതിനാൽ ക്വാണ്ടം നമ്പറുകൾ വഴിയുള്ള സാധ്യത നമ്മൾ ഉൾപ്പെടുത്തി ആ ഓർബിറ്റ് പല തരത്തിലാകാം അതിനാൽ നമ്മൾ കണ്ടത് ഒരേ എനർജിത്തിന് ഒന്നിലധികം ഭ്രമണപഥങ്ങളുണ്ടാകാം എന്നാണ് nr nϕ എന്നീ 2 ക്വാണ്ടം സംഖ്യകൾ തമ്മിലുള്ള ബന്ധം ഊർജവും ഭ്രമണപഥത്തിന്റെ തരവും നൽകുന്നു അതിനാൽ ഇത് ഇപ്പോഴും പഴയ ക്വാണ്ടം സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുന്ന ഒരു തരം ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണും പിന്നീട് യഥാർത്ഥ ക്വാണ്ടം മെക്കാനിക്സ് നൽകിയ ഉത്തരങ്ങൾ യഥാർത്ഥ ക്വാണ്ടം മെക്കാനിക്സ് നൽകിയ ഉത്തരങ്ങൾ ആശയങ്ങൾ ആണ് അവ പഴയ ക്വാണ്ടം തിയറിയിലൂടെ ഇതിനകം തന്നെ സജ്ജീകരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പഴയ ക്വാണ്ടം തിയറത്തിന് സമർപ്പിച്ച മുൻ പ്രഭാഷണവും ഈ പ്രഭാഷണവും നടത്തുന്നത് അടുത്തതായി പരിഗണിക്കാൻ പോകുന്നത് 3 ഡൈമൻഷണൽ കേസാണ് 3 ഡൈമൻഷണൽ കേസിൽ ഈ ഓർബിറ്റ് x y പ്ലെയിൻ മാത്രം ഒതുങ്ങേണ്ടതില്ല ഓർബിറ്റ് ചരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ ചരിഞ്ഞിരിക്കാം അതിനാൽ ഈ ചായ്വ് ഒരു പുതിയ ക്വാണ്ടം നമ്പറും ഒരു അധിക മൂന്നാം ക്വാണ്ടം നമ്പറും കൊണ്ടുവരാൻ പോകുന്നു അതിനാൽ xy പ്ലെയിൻ ബന്ധപ്പെട്ട് ഓർബിറ്റ് ചരിഞ്ഞിരിക്കാമെന്നതാണ് നമ്മൾ പരിഗണിക്കുന്നത് ആ ചരിവ് തീരുമാനിക്കുന്നത് ഒരു മൂന്നാം ക്വാണ്ടം സംഖ്യയാണ് അതിനാൽ അതിനായി നമ്മൾ ഇപ്പോൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ പൂർണ്ണമായ 3 ഡൈമൻഷണൽ ചലനത്തെ പരിഗണിക്കുന്നു ഇതിനെ ഒരു ആറ്റത്തിലേക്ക് ക്വാണ്ടം അവസ്ഥകളുടെ പ്രയോഗം എന്നും വിളിക്കാം ഇത് പൂർണ്ണമായ ഗ്ലോറിഫൈഡ് 3 ഡൈമൻഷണൽ കാഴ്ചയാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഈ സ്ഫെറിക്കാളിലുള്ള കോർഡിനേറ്റുകൾ ഉപയോഗിക്കാൻ പോകുന്ന എനർജിവും E എനർജിം നൽകാൻ പോകുന്നത് ½m r˙2 ½ mr2 θ˙2 ½ mr²sin²θ ϕ˙ 2− kr ആണ് ഇപ്പോൾ അത് 3 ആകാൻ പോകുന്നു 3 സാമാന്യവൽക്കരിച്ച മൊമെന്റെയായിരിക്കും ഇവ എന്തൊക്കെയാണ് ഇവ pr ആണ് ∂ E ∂r ̇ ഇത് mr ̇ ഇതാണ് pθ അതായത് ∂ E ∂θ̇ ഇത് mr² θ̇ ആണ് pϕ ഇത് ∂ E ∂ϕ ̇ ന് തുല്യമാണ് ഇത് mr² sin² θϕ ̇ ആണ് ഇവ എന്തൊക്കെയാണ് ഇത് r ന്റെ കൂടെയുള്ള ചലനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതും ലീനിയർ മൊമെന്റം എന്ന അളവിലുള്ളതും നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തേത് ആന്ഗുലർ മോമെന്റും അളവാണ് അതുപോലയ തന്നെ ആണ് മൂന്നാമത്തേത് അവയുടെ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ 3 ഡൈമൻഷനിൽ ചലിക്കുന്ന ഒരു കണത്തിന്റെ ആന്ഗുലർ മോമെന്റേം എന്താണെന്ന് നോക്കാം ഇത് r × mv ആണ് എനിക്ക് mr r ×r˙ r r θ˙ θ rsinθ ϕ˙ ϕ എന്ന് എഴുതാം നിങ്ങൾ ഈ ക്രോസ് ഉൽപ്പന്നം എടുക്കുക ഇത് mr2 θ˙ r × θ mr2 sinθ ϕ˙ r × ϕ ആയി വരുന്നു ഇത് mr2 θ˙ ϕ −mr2 sinθ ϕ˙ θ അല്ലാതെ മറ്റൊന്നുമല്ല മുമ്പത്തെ പ്രക്രിയയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ϕ മറ്റൊന്നുമല്ല − x sinϕ y cos ϕ കൂടാതെ θ മറ്റൊന്നുമല്ലx cosθcosϕ y cosθsinϕ− z sin θ അതിനാൽ ഇവയിൽ ഞാൻ പകരം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം ആന്ഗുലർ മോമെന്റും വെക്റ്റർ L mr2 θ˙ − x sinϕ y cos ϕ−mr2 sinθ ϕ˙ θ അതിനാൽ Lm r2 θ˙ ϕ mr2 sinθ ϕ˙ θ എന്ന പദപ്രയോഗത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് pϕ എന്നത് L ന്റെ z ഘടകമല്ലാതെ മറ്റൊന്നിനും തുല്യമല്ല കൂടാതെ L സ്ക്വയർ എന്നത് P2P2sin2 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഞാൻ L ന്റെ z ഘടകം എടുക്കുകയാണെങ്കിൽ അത് ϕ ൽ നിന്ന് 0 ആണ് ϕ നിങ്ങൾക്ക് z ഘടകത്തിന് 0 സംഭാവന നൽകുന്നു −mr2 sinθ ϕ˙ θ എന്നത് z ഘടകം −sin θ z അതിനാൽ ഇത് mr2 sinθ ϕ˙ z ആയി വരുന്നു ഇത് pϕ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് pϕ എന്നത് L z അല്ലാതെ മറ്റൊന്നുമല്ല L ന്റെ mr2 θ˙ ϕ −mr2 sinθ ϕ˙ θ എന്ന പദപ്രയോഗത്തിൽ നിന്ന് എനിക്ക് ഇത് pθ ϕ Pᵩsin θ എന്ന് എഴുതാം θ ഉം ϕ ഉം പരസ്പരം ലംബമാണ് അതിനാൽ ഇത് ഉടനടി സൂചിപ്പിക്കുന്നത് L2 P²ᵩ P²ᵩsin²θ അതിനാൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു ഇലക്ട്രോണിന്റെ 3 ഡൈമൻഷണൽ ചലനത്തിനുള്ള എനർജിം ½m r˙2½mr2 θ²˙ ½mr2 sin2 θ ϕ˙²− kr ആയി നൽകപ്പെടുമെന്ന് നമ്മൾ കണ്ടെത്തി ഇത് നമ്മുക്ക് ഇപ്പോൾ നോക്കാം

ഇത് L₂ അല്ലാതെ മറ്റൊന്നുമല്ല കൂടാതെ pθ എന്നത് ആന്ഗുലർ മൊമെന്റം ആയ L2 ആണ് ഞാൻ ആന്ഗുലർ മോമെന്റും ഉപയോഗിക്കുന്നുL²P²θ P²ᵩsin²θ നമ്മൾ ഇത് ഇതുവരെ കണ്ടെത്തിയതുപോലെ ഇപ്പോൾ സെൻട്രൽ ഫീൽഡ് മോഷന് വേണ്ടി പ്രധാനമായും v 1r രൂപത്തിലായിരിക്കുമ്പോൾ ഫോഴ്സ് സെൻട്രൽ L സംരക്ഷിതമാണ് ഇതിനർത്ഥം L ന്റെ എല്ലാ ഘടകങ്ങളും ശരിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനാൽ അതിന്റെ അർത്ഥം L2 p²θp²ᵩsin²θφ എന്നത് ചലനത്തിലുടനീളം ഒരു കോൺസ്റ്റന്റാണ് കൂടാതെ LzPᵩmr²sin²θφ ഒരു കോൺസ്റ്റന്റ് കൂടിയാണ് ഇനി നമുക്ക് ക്വാണ്ടം വ്യവസ്ഥകൾ പ്രയോഗിക്കാം ഇവ എന്താണ് നൽകുന്നത് Pϕdϕ പ്രയോഗിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഇപ്പോളിന്നാൽ ഈ സ്ഥിരമായ Lz 2 π എന്നത് nϕ h അല്ലെങ്കിൽ Lz nϕ ℏ ന് തുല്യമായിരിക്കണം ഇതാണ് ഒരു ക്വാണ്ടം അവസ്ഥ pθ എന്നതിനായി pθ dθ അവിഭാജ്യമായിരിക്കും L2 LZ2sin2d nh തുല്യമായ ഇതിന്റെ പരിധികൾ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം Refer Slide Time 1503 ഇപ്പോൾ Lz എന്നത് L ആന്ഗുലർ മോമെന്റത്തിന്റെ z ഘടകമാണ് L ന്റെ ലസ് എന്നത് z ഘടകം ആയതിനാൽ Lz മോഡുലസ് L നേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് L2 LZ2sin2d നോക്കാം ഇപ്പോൾ L2 LZ2sin2 നിങ്ങൾക്ക് യഥാർത്ഥമായിരിക്കണമെങ്കിൽ L2 LZ2sin20 ഒപ്പം sin2Lz2L2 LzLsin LzL ഒപ്പം LzLsin LzL അതിനാൽ ഇവിടെ നിന്നുള്ള ഈ ഇന്റഗ്രൽ sin 1LzLsin 1LzLL2 LZ2sin2d ആയി മാറുന്നു ഈ ഇന്റഗ്രൽ എങ്ങനെ കണക്കാക്കുന്നു എന്നതിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ അതിന്റെ മൂല്യം വരുന്നുന്നത് നിങ്ങൾ 2 π ആയി വരുന്ന ഇന്റഗ്രൽ ചെയ്തതിന് ശേഷം ആയിരിക്കും അതിനാൽ നമ്മൾ കണ്ടെത്തിയത് ∫ pϕ dϕnϕ h നമ്മൾക്ക് തരുന്നത് Lznϕ ℏ ആണ് കൂടാതെ ∫ Pd θ2 π L−|Lz|അല്ലെങ്കിൽ L−|Lz| nθ ℏ ന് തുല്യമാണ് അല്ലെങ്കിൽ L|Lz|nθ ℏ അതായത് |nϕ|nθ ℏ അതിനാൽ നമ്മൾ കണ്ടെത്തിയത് ആന്ഗുലർ മൊമെന്റത്തിന്റെ ആന്ഗുലർ മോമെന്റും z ഘടകം nϕ ℏ ന് തുല്യമാണ് ഇത് z ഘടകമായതിനാൽ ഇതിന് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് മൂല്യങ്ങൾ എടുക്കാം അതിനാൽ ഞാൻ പറയാൻ പോകുന്നത് nϕ 0 അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പൂർണ്ണസംഖ്യകളാകാം അവ പൂർണ്ണസംഖ്യകളാണ് എന്നാൽ പോസിറ്റീവ് നെഗറ്റീവ് മൂല്യങ്ങൾ എടുക്കുക ആന്ഗുലർ മോമെന്റത്തിന്റെ കാന്തിമാനമായ L |nϕ|nθ ℏ ന് തുല്യമായിരിക്കും കൂടാതെ nθ 1 2 എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ nϕ 0 ആണെങ്കിലും nθ ന് ആന്ഗുലർ മോമെന്റും പരിമിതമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ 0 ആന്ഗുലർ മൊമെന്റംഒഴിവാക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് 2 ക്വാണ്ടം നമ്പറുകൾ ലഭിച്ചു nθ nϕ nθ എന്നത് nθ|nϕ| മായി ബന്ധപ്പെട്ടിരിക്കുന്നു മൊത്തം ആന്ഗുലർ മോമെന്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ nϕ ആന്ഗുലർ മോമെന്റത്തിന്റെ z ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമുക്ക് വീണ്ടും Lz എന്നത് pϕ nϕ ℏ ന് തുല്യമാണെന്നും nϕ0 ± 1 ± 2 എന്നിവയും മറ്റും സംഗ്രഹിക്കാം മൊത്തം ആന്ഗുലർ മോമെന്റത്തിന്റെ മഗ്നിറ്റുടെ L |nϕ|nθ ℏ ആയിരിക്കും അതിനാൽ ഇത് നമ്മുക്ക് അതിനെ kh എന്ന് വിളികാം kh ന് തുല്യമായിരിക്കും k സമം 1 2 3 എന്നിങ്ങനെയായിരിക്കും |Lz|≤L എന്ന് നമ്മൾ കണ്ടെത്തിയതിനാൽ ഇത് അനിവാര്യമായും സൂചിപ്പിക്കുന്നു |nϕ|ℏ ≤kℏ അല്ലെങ്കിൽ nϕ മൈനസ് k കും k കും ഇടയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് ഒരു നെറ്റ് ആന്ഗുലർ മൊമെന്റം kℏ ഉണ്ടായിരിക്കാം അത് z ദിശയിലുള്ള ഒരു ദിശയിലായിരിക്കാം അടുത്തതായി ഇത് ആകാം അതിനാൽ ഇത് kℏ ആയിരിക്കും അല്ലെങ്കിൽ k−ℏ ആയിരിക്കും അതിനാൽ ആന്ഗുലർ മോമെന്റും ആന്ഗുലർ momentum ഒരു നിശ്ചിത ദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അത് ഏതെങ്കിലും ഏകപക്ഷീയമായ ദിശയാകാൻ കഴിയില്ല പ്രൊജക്ഷൻ k ℏ ആയിരിക്കണം മൂന്നാമതായി എനിക്ക് ഈ kℏ ഉണ്ടായിരിക്കാം z ഘടകം k −2 ℏ ആയിരിക്കും ഞാൻ ഈ ചിഹ്നങ്ങൾ പ്രതീകാത്മകമായി വരയ്ക്കുകയാണ് ഈ കോണുകൾ കൃത്യമായി എഴുതിയിട്ടില്ല വാസ്തവത്തിൽ k മൈനസ് 2 h 2 ℏ എങ്കിൽ ഞാൻ ഇത് ഇതുപോലെയായിരിക്കുമെന്ന് കാണിക്കും ആന്ഗുലർ മോമെന്റും o യെക്കാൾ വലുതായിരിക്കും ഇത് k−2 ℏ kℏ ആണ് മാത്രമല്ല അത് വിപരീത ദിശയിലാകാം അതിനാൽ ഞാൻ സ്കെയിലിലേക്ക് വരച്ചാൽ ആദ്യത്തേത് പോലും ഇതുപോലെയാകില്ല പകരം അത് kℏ ആണ് k h നൊപ്പം അത് വിപരീത ദിശയിലും ആകാം നെറ്റ് ആന്ഗുലർ മോമെന്റും മറ്റൊരു ദിശയായിരിക്കാം കാന്തിമാനം kh ആയി തുടരുന്നു z ഘടകം ആകാം −kℏ എനിക്കും ഉണ്ടായിരിക്കാം−k ℏ ഈ രീതിയിലുള്ള ആന്ഗുലർ മൊമെന്റം പോയിന്റ് kℏ എനിക്ക് നെഗറ്റീവ് ദിശയിൽ k −2 ℏ ആന്ഗുലർ മോമെന്റും ഈ രീതിയിൽ നെറ്റ് ആന്ഗുലർ മൊമെന്റം പോയിന്റും ഉണ്ടാകാം അതിനാൽ ഇത് കാണിക്കുന്നത് ഒരുതരം സ്പേസ് ക്വാണ്ടൈസേഷനാണ് ഓർബിറ്റ് ഒന്നുകിൽ xy പ്ലെയിനിൽ ആയിരിക്കാം അല്ലെങ്കിൽ അവ ചരിഞ്ഞിരിക്കാം എന്നാൽ അവയെ ഏകപക്ഷീയമായി ചരിക്കാൻ കഴിയില്ല അങ്ങനെ z ഘടകം ഇപ്പോഴും ℏ ന്റെ ഒരു പൂർണ്ണ ഗുണിതമാണ് മൊത്തം ആന്ഗുലർ മോമെന്റും അതേപടി തുടരും അതിനാൽ ആന്ഗുലർ മൊമെന്റത്തിന്റെ ആകെ മൊമെന്റം z എന്നിവയുമായി ബന്ധപ്പെട്ട nθ nϕ എന്നീ 2 ക്വാണ്ടം സംഖ്യകൾ നമ്മൾ കണ്ടെത്തി nrh ന് തുല്യമാകാൻ ഞാൻ ഇപ്പോഴും prdr ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ അത് ചെയ്യാം അതിനാൽ എനർജി 12 m r˙212mr2 θ˙2 12mr2 sin2 θ 2˙ − kr എന്നതിന് തുല്യമാണെന്ന് ഓർക്കുക പെട്ടെന്ന് എനിക്ക് ഇത് Pr22mP22m2msin2 kr എന്ന് എഴുതാം നമ്മൾ നേരത്തെ ഉരുത്തിരിഞ്ഞതിൽ നിന്ന് ഇത് Pr22mL22mr2 krഎന്നതിന് തുല്യമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എനിക്ക് Pr22mL22mr2 kr ആയി നൽകിയിരിക്കുന്ന എനർജിമുണ്ട് അതിനാൽ pr 2mE L2r2 kr ആയി നൽകിയിരിക്കുന്നു 2 ഡിമെൻഷനാൽ കേസിൽ എനിക്ക് ലഭിച്ച അതേ പദപ്രയോഗമാണിത് അതിനാൽ 2 d കേസിൽ നമ്മൾക്ക് ലഭിച്ച അതേ പദപ്രയോഗമാണിത് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എഴുതട്ടെ അതിനാൽ ഞാൻ ∫prdrnrh ചെയ്താൽ എനിക്ക് അതേ ഉത്തരം നൽകും ആ പ്രഭാഷണത്തിലേക്ക് മടങ്ങാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കും കൂടാതെ En mk22n2h2 എന്നതിന് സമാനമായ ഉത്തരം എനിക്ക് ലഭിക്കും m32202h2n2 ഇവിടെ n ഇപ്പോൾ nrnθnϕ ആകാൻ പോകുന്നു അതാണ് n ന്റെ മൂല്യം nr എന്നത് n മിനിമം ഒന്ന് ആയതിനാൽ 0 1 2 ആകാം അതിനാൽ ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് നമ്മൾ പൂർണ്ണ 3 ഡി മോഷൻ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും എന്നതാണ് ഒന്ന് E എന്നത് 12m r˙212mr2 θ˙2 12mr2 sin2 θ 2− kr എന്നാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ക്വാണ്ടം വ്യവസ്ഥകൾക്വാണ്ടും states pr dr എന്നത് nr h pθ dθ nθ h ന് തുല്യമാണ് pϕ d ϕ nϕ h ന് തുല്യമാണ് കൂടാതെ nr 0 1 2 ആയിരിക്കുമെന്നും മറ്റും നമ്മൾ കണ്ടെത്തി nθ1 2 നും മറ്റും തുല്യമായിരിക്കും nϕ 0 പ്ലസ് മൈനസ് 1 പ്ലസ് മൈനസ് 2 ആയിരിക്കും അതിലും പ്രധാനമായി നമുക്ക് ഇപ്പോൾ ഉള്ളത് 3 ക്വാണ്ടം സംഖ്യകളാണ് ഇതിലൂടെ nϕ ന്റെ മോഡ് n നേക്കാൾ കുറവോ തുല്യമോ ആണെന്ന് നമ്മൾ കണ്ടെത്തി ഇവിടെ nnθnϕ കാരണം z ഘടകം മൊത്തം ആന്ഗുലർ മോമെൻറും കുറവോ തുല്യമോ ആയിരിക്കണം അതിനാൽ 3 ക്വാണ്ടം സംഖ്യകൾ മൂന്നിലൊന്ന് n എനർജിം പുറത്തുവരുന്നത് ബോർ മോഡൽ e v പോലെയാണെന്ന് നമ്മൾ കണ്ടെത്തി എന്നാൽ ഇപ്പോൾ En എനർജിയുള്ള ഒരു ഓർബിറ്റ് സാധ്യത ഇല്ലാതായി പകരം നമുക്ക് ഉണ്ടാകാവുന്നത് nr n തിറ്റ nϕ എന്നീ ക്വാണ്ടം സംഖ്യകളുള്ള വ്യത്യസ്ത ഓർഭിറ്റുകൾക്ക് nrnθ|nϕ| എന്നതിനെ ആശ്രയിച്ച് En ഒരേ എനർജി ഉണ്ടായിരിക്കും എന്നതാണ് അതിനാൽ ഒരു ഓർബിറ്റിന് 3 സംഖ്യകളുണ്ടെന്ന് ഇത് നൽകുന്നു അത് n എന്ന് എനിക്ക് എഴുതാം അതേ nrnθ|nϕ| മൊത്തം ആന്ഗുലർ മോമെന്റും നൽകുന്ന k nϕ |nϕ|≤k അതിനാൽ ഈ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ചെയ്യുന്ന ആശയങ്ങളാണ് ഈ ക്വാണ്ടം അവസ്ഥകളിൽ നിന്ന് ക്വാണ്ടം സംഖ്യകൾ എന്ന ആശയം എങ്ങനെ ഉടലെടുത്തു ഇത് ക്വാണ്ടം പ്രകൃതിയെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നമ്മെ നയിക്കും കണക്കുകൂട്ടലുകൾ ഇന്നും ഉപയോഗത്തിലുള്ള വിൽസൺ സോമർഫെൽഡ് ക്വാണ്ടം അവസ്ഥകളെ അടിസ്ഥാനമാക്കിയുള്ള ചില ലളിതമായ കണക്കുകൂട്ടലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ഈ ആശയങ്ങൾ യഥാർത്ഥ ക്വാണ്ടം മെക്കാനിക്സുമായി എത്രത്തോളം അടുത്തുവന്നുവെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങുമ്പോൾ പൂർണ്ണ ക്വാണ്ടം മെക്കാനിക്സ് നിലവിൽ വരുമ്പോൾ നിങ്ങൾ പിന്നീട് കാണും പ്രധാനപ്പെട്ടതും അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നതും ഈ 3 ക്വാണ്ടം നമ്പറുകൾക്വാണ്ടും numbers ഉള്ളതാണ് ഇപ്പോൾ ആളുകൾ വ്യത്യസ്ത ആറ്റങ്ങളുടെatom സ്പെക്ട്രവും ആവർത്തനപ്പട്ടികയും വിശദീകരിക്കാനും ഇലക്ട്രോൺ സ്പിൻഎന്ന ആശയം കൊണ്ടുവരാനും ശ്രമിക്കുന്നു